ഹലോ secure systems engineering കോഴ്സിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ക്ലാസ്സ് ഇന്റലിന്റെ എസ്ജിഎക്സ് സോഫ്റ്റ്വെയർ ഗാർഡ് എക്സ്റ്റൻഷനെ കുറിച്ചാണ് Intel's SGX software guard extension secure എക്സിക്യൂഷൻ environment എന്ന വിഷയത്തെ കുറിച്ചുള്ള വീഡിയോ പരമ്പരയുടെ ഒരു ഭാഗമാണിത് മുമ്പത്തെ വീഡിയോയിൽ ARM ട്രസ്റ്റ്സോണിനെക്കുറിച്ചും കൂടാതെ ARM ട്രസ്റ്റ്സോൺ ഒരു വിശ്വസനീയമായ എക്സിക്യൂഷൻ പരിതസ്ഥിതി സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചും നമ്മൾ കണ്ടു എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ എസ്ജിഎക്സിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് അതിനാൽ എസ്ജിഎക്സ് നേടുന്ന സുരക്ഷ സെർവർ തരത്തിലുള്ള മെഷീനുകൾക്ക് കൂടുതൽ മുൻഗണന നൽകും അതേസമയം ARM trustzone emmbedded platform നാണു കൂടുതൽ അനുയോജ്യം നമ്മൾ സാധാരണയായി ഒരു മെഷീനിലോ സിസ്റ്റത്തിലോ നോക്കുമ്പോൾ ഹാർഡ്വെയറിന്റെ ഒന്നിലധികം പാളികളുണ്ടെന്ന് കാണുന്നു അതായത് വിഎമ്മുകളും ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും അതിനു മുകളിൽ അപ്ലിക്കേഷനും ഉണ്ട് ഇപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ മുഴുവൻ പദ്ധതിയും വിശ്വാസയോഗ്യമായ അല്ലെങ്കിൽ ആക്രമണ സാധ്യതയുള്ള ഒരു surface ആണ് അതിനാൽ ഇത് അർത്ഥമാക്കുന്നത് ആപ്ലിക്കേഷന് എന്തെങ്കിലും ഒരു രഹസ്യ കീ ഉണ്ടെന്നു വിചാരിക്കുക ആ key സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് നിങ്ങൾ വിശ്വസനീയമെന്ന് കരുതുന്ന പ്രദേശമാണ് ഈ പ്രത്യേക ബോക്സഡ് ഏരിയ അപ്ലിക്കേഷനിൽ ഒരു malware ഉണ്ടെങ്കിൽ അതിന് ആ രഹസ്യ കീ മോഷ്ടിക്കാനാകും അതുപോലെ ഒരു malware ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയോ വിഎമ്മിനെയോ ആക്രമിക്കുകയാണെങ്കിൽ അപ്ലിക്കേഷനിൽ അടങ്ങിയിരിക്കുന്ന കീ compromise ചെയ്യാൻ കഴിയും സമാനമായ രീതിയിൽ ഒരു malware ഓ ട്രോജനോ ഹാർഡ്വെയർ അപ്ലിക്കേഷനിലെ രഹസ്യ കീ മോഷ്ടിക്കും നമ്മൾ ഇവിടെ കാണുന്നത് ഒരു സാധാരണ സിസ്റ്റത്തിൽ എന്തെങ്കിലും രഹസ്യമായി സൂക്ഷിക്കുന്നതിന് എല്ലാ ഹാർഡ്വെയർ സിസ്റ്റങ്ങളും വെർച്വൽ മെഷീനുകളും മാനേജർമാർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നിവയെല്ലാം വിശ്വസനീയമാണെന്ന് ഉള്ള ധാരാളം അനുമാനങ്ങൾ ആവശ്യമാണ് എന്നതാണ് ഇപ്പോൾ എസ്ജിഎക്സ് യഥാർത്ഥത്തിൽ ആക്രമണ സാധ്യത കുറയ്ക്കുന്നു ഇങ്ങനെയാണ് എസ്ജിഎക്സ് കമ്പ്യൂട്ടർ സിസ്റ്റം പ്രവർത്തനക്ഷമമാക്കുന്നത് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്നും ഈ അപ്ലിക്കേഷന് ഒരു രഹസ്യ കീ ഉണ്ടെന്നും കരുതുക എസ്ജിഎക്സിൽ ഈ രഹസ്യ കീ ക്ക് ഈ ചുവന്ന ഡോട്ട് ലൈനിൽ ബോക്സുചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനിലെ ഭാഗങ്ങളും ഹാർഡ്വെയറിലെ ഭാഗങ്ങളും യഥാർത്ഥത്തിൽ വിശ്വസനീയമായിരിക്കണം നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വസനീയമല്ലാത്ത ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിശ്വസനീയമല്ലാത്ത വെർച്വൽ മെഷീൻ മാനേജർമാർ തുടങ്ങിയവ ഉണ്ടായിരിക്കാം ആപ്ലിക്കേഷന്റെ വിശ്വസനീയമായ ചെറിയ ഏരിയകൾക്കൊപ്പം ഹാർഡ്വെയറിന്റെ ഭാഗവുമായി കീ രഹസ്യമായി സൂക്ഷിക്കുക എന്നതാണ് ആവശ്യം ഇതിലൂടെ ഞങ്ങൾ നേടുന്നത് attack surface നെ ഗണ്യമായി കുറയ്ക്കുക എന്നതാണ് എസ്ജിഎക്സ് ഓപ്പറേഷൻ മോഡിനെതിരെ സാധാരണ പ്രവർത്തന രീതിയെ താരതമ്യം ചെയ്താൽ ആ രഹസ്യ കീയിലേക്ക് ആക്സസ് നേടുന്നതിന് ഒരു ആക്രമണകാരിക്ക് ആപ്ലിക്കേഷൻ ഒഎസ് വെർച്വൽ മെഷീൻ അല്ലെങ്കിൽ ഹാർഡ്വെയർ എന്നിവ ആക്രമിക്കാമെന്ന് കാണാം എസ്ജിഎക്സ് പ്രാപ്തമാക്കിയ ഹാർഡ്വെയറിൽ രഹസ്യ കീയിലേക്ക് ആക്സസ് നേടുന്നതിന് ആക്രമണകാരി ഹാർഡ്വെയറിലെ അല്ലെങ്കിൽ അപ്ലിക്കേഷനിലെ ചെറിയ ഭാഗങ്ങൾ ടാർഗെറ്റുചെയ്യേണ്ടതുണ്ട് അതിനാൽ എസ്ജിഎക്സ് യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം ഇത് നമ്മുടെ പ്രോസസ് സ്പേസ് ആണെന്ന് നമുക്ക് പറയാം പ്രോസസ് സ്പേസിന് കോഡ് അതായത് ആപ്ലിക്കേഷൻ കോഡ് സ്റ്റാക്ക് ഹീപ് എന്നിവ ഉണ്ടെന്നു നമ്മൾ കണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു പ്രോസസ്സിന്റെ ഉയർന്ന അഡ്രസ്സിൽ ആണ് ഉള്ളത് ഇപ്പോൾ എസ്ജിഎക്സ് ഈ അഡ്രസ്സിൽ എൻക്ലേവുകൾ സ്ഥാപിക്കാൻ നമ്മളെ സഹായിക്കുന്നു ഇവിടെ നമ്മൾ കാണുന്നത് പ്രോസസ്സിന്റെ ഈ മുഴുവൻ അഡ്രസ്സ് സ്പേസിലും എൻക്ലേവ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രദേശമുണ്ട് ഇത് വിശ്വസനീയമായ എക്സിക്യൂഷൻ പരിസ്ഥിതി നേടുന്നതിന് ആവശ്യമായ സാൻഡ്ബോക്സ് നൽകുന്നു അതിനാൽ ഈ പ്രത്യേക എൻക്ലേവിനുള്ളിൽ പതിവ് കോഡ് സ്റ്റാക്ക് ഹീപ്പ് എന്നിവ ഉണ്ടായിരിക്കാം അതിനാൽ ഇതിനെ നമ്മൾ എൻക്ലേവ് കോഡ് എൻക്ലേവ് സ്റ്റാക്ക് എൻക്ലേവ് ഹീപ്പ് എന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് എൻട്രി ടേബിൾ ടിസിഎസ് TCSThreat Control Structure എന്നിവ പോലുള്ള ചില മാനേജ്മെൻറ് ഡാറ്റ ഒരു എൻക്ലേവിൽ ഉണ്ടായിരിക്കാം ഇപ്പോൾ ഈ എൻക്ലേവിനെ അദ്വിതീയമാക്കുന്നതെന്തെന്നാൽ ഈ എൻക്ലേവിന് പുറത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഏത് കോഡിനും ഏതെങ്കിലും ഫംഗ്ഷനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദാഹരണമായി ഇവിടെയുള്ള ഈ green region എൻക്ലേവിലുള്ള ഏതെങ്കിലും കോഡോ ഡാറ്റയോ ആക്സസ് ചെയ്യാൻ കഴിയില്ല ഉദാഹരണത്തിന് ഇവിടെ നിലവിലുള്ള ഒരു കോഡിന് എൻക്ലേവ് കോഡിലുള്ള ഒരു ഫംഗ്ഷനെ നേരിട്ട് വിളിക്കാൻ കഴിയില്ല അതുപോലെ എൻക്ലേവിന് പുറത്തുള്ള കോഡിന് നേരിട്ട് എൻക്ലേവിലുള്ള സ്റ്റാക്കിലോ heap ലോ ഉള്ള ഡാറ്റ അഭ്യർത്ഥിക്കാനോ ആക്സസ് ചെയ്യാൻ കഴിയില്ല എന്നാൽ തിരിച്ചാണെങ്കിൽ ഇത് സാധ്യമാണ് അതായത് നിങ്ങൾ എൻക്ലേവിനുള്ളിൽ ഈ കോഡ് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ഈ പ്രത്യേക കോഡിന് എൻക്ലേവിലുള്ള സ്റ്റാക്കും ഹീപ്പും ആക്സസ് ചെയ്യാനും എൻക്ലേവിന് പുറത്തുള്ള മറ്റ് എല്ലാ ആപ്ലിക്കേഷൻ ഡാറ്റയും കോഡും ആക്സസ് ചെയ്യാനും കഴിയും അതിനാൽ എൻക്ലേവ് യഥാർത്ഥത്തിൽ confidentiality യും integrity യും നേടാൻ കഴിയുന്ന ഒരു closed സാൻഡ്ബോക്സ് സൃഷ്ടിക്കാൻ നമ്മളെ അനുവദിക്കുന്നു confidentiality എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻക്ലേവിനുള്ളിലെ കോഡും ഡാറ്റയും എൻക്ലേവിന് പുറത്തുള്ള എന്തിനെയും അല്ലെങ്കിൽ ഏതെങ്കിലും കോഡിനെ രഹസ്യമായി സൂക്ഷിക്കുന്നു എന്നതാണ് സാധാരണയായി ഇത് ഒന്നിലധികം വഴികളിലൂടെ നേടാം ഉദാഹരണത്തിന് എൻക്രിപ്ഷൻ നടന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ചു നമ്മൾ പിന്നീട് കൂടുതൽ കാണും ഹാർഡ്വെയറിൽ ഉള്ള പ്രത്യേക മെമ്മറി മാനേജുമെന്റ് യൂണിറ്റ് എൻക്ലേവിലെ കോഡിന്റെയും ഡാറ്റയുടെയും രഹസ്യാത്മകത കൈവരിക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു സമാനമായ രീതിയിൽ എൻക്ലേവിലുള്ള കോഡിന്റെയും ഡാറ്റയുടെയും സമഗ്രത നമ്മൾ നേടുന്നു ഇതിന്റെ അർത്ഥമെന്തെന്നാൽ ഏതെങ്കിലും കോഡും ഡാറ്റയും ഒരു ബാഹ്യ കക്ഷിക്ക് മാറ്റം വരുത്താനോ പരിഷ്കരിക്കാനോ കഴിയില്ല പ്രത്യേക ഹാർഡ്വെയർ ഹാർഡ്വെയറിൽ നിലവിലുള്ള പ്രത്യേക മെമ്മറി മാനേജുമെന്റ് യൂണിറ്റുകൾ വിവിധ ക്രിപ്റ്റോഗ്രഫി അൽഗോരിതങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് ഇത് സാധാരണ ചെയ്യുന്നത് അതിനാൽ ഡാറ്റ തകരാറിലല്ലെന്ന് നമ്മൾ ഉറപ്പാക്കുന്നു ഇപ്പോൾ ഇന്റൽ പ്രോസസറുകളിലെ എസ്ജിഎക്സ് ഉറപ്പാക്കുന്ന ഒരു കാര്യം ഡാറ്റ പ്രോസസറിന് പുറത്ത് പോകുമ്പോൾ അതായത് എൻക്ലേവിൽ നിന്നുള്ള ഡാറ്റയോ കോഡോ പ്രോസസറിലേക്കോ പുറത്തേയ്ക്കോ പോകുന്നുവെങ്കിൽ സിസ്റ്റത്തിലെ ഡി റാമിലെ വിവിധ ബസുകൾ അല്ലെങ്കിൽ സ്നൂപ്പ് ഒരു ആക്രമണകാരിക്കും യഥാർത്ഥത്തിൽ നിരീക്ഷിക്കാനാവില്ല എന്നു ഉറപ്പാക്കുന്നതിന് വ്യവസ്ഥകളുണ്ട് അതിന് കോഡും ഡാറ്റയും യഥാർത്ഥത്തിൽ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയും മെമ്മറി എൻക്രിപ്ഷൻ ഉപയോഗിച്ചാണ് ഇത് സാധിക്കുന്നത് എൻക്ലേവിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഏത് ഡാറ്റയും എൻക്രിപ്റ്റ് ചെയ്ത അവസ്ഥയിൽ റാമിൽ സംഭരിക്കേണ്ടതാണ് ഈ ഡാറ്റ റാമിൽ നിന്ന് പ്രോസസറിലേക്ക് നീക്കുമ്പോൾ അത് പ്രോസസ്സറിനുള്ളിൽ ഡീക്രിപ്റ്റ് ചെയ്യപ്പെടും അതിനാൽ ഡാറ്റാ ബസ്സിൽ ഒരു സ്നൂപ്പിംഗ് നടക്കുന്നുണ്ടെങ്കിലോ ഡി റാമിനുള്ളിൽ യഥാർത്ഥത്തിൽ സ്നൂപ്പിംഗ് ഉണ്ടെങ്കിലോ എന്താണ് സംഭവിക്കുകയെന്നാൽ ആക്രമണകാരി എൻക്രിപ്റ്റ് ചെയ്ത കോഡ് മാത്രമേ കാണുകയുള്ളു അതിനാൽ സെൻസിറ്റീവ് ഡാറ്റയും വിവരങ്ങളും ഇപ്പോഴും രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയും ഇവ യഥാർത്ഥത്തിൽ ആന്തരികമായി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം Trusted execution environment കൈവരിക്കുന്നതിനുള്ള സങ്കീർണ്ണമായ ഒരു സംവിധാനമാണ് എസ്ജിഎക്സ് ഇത് എങ്ങനെ പ്രവർത്തിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വ അവലോകനം ഈ ക്ലാസ്സിൽ നമ്മൾ കാണും എസ്ജിഎക്സ് ഉൾപ്പെട്ട ഇന്റൽ പ്രോസസറിൽ RAMന്റെ ചില ഭാഗങ്ങൾ പിആർഎം എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇത് പ്രോസസ്സർ അനുബന്ധ മെമ്മറി എന്നറിയപ്പെടുന്നു ഇവിടെ BIOS address A മുതൽ address B വരെ ഉള്ള ഭാഗം പ്രോസസ്സറുമായി ബന്ധപ്പെട്ട മെമ്മറിയായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിനർത്ഥം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോ പ്രോസസ്സറിലൂടെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾക്കോ പിആർഎമ്മിലെ മെമ്മറി നേരിട്ട് ആക്സസ് ചെയ്യാൻ കഴിയില്ല എന്നതാണ് നെറ്റ്വർക്ക് ഗാർഡുകൾ അല്ലെങ്കിൽ ഗ്രാഫിക് എഞ്ചിനുകൾ പോലുള്ള ബാഹ്യ ഉപകരണങ്ങളൊന്നും ഈ പിആർഎമ്മിലെ ഡാറ്റ വായിക്കാനോ എഴുതാനോ കഴിയില്ല എന്നതാണ് മെമ്മറിയുടെ ഈ പിആർഎം മേഖലയുടെ പ്രത്യേകത കുറച്ചുകൂടി സാങ്കേതികമായി പറഞ്ഞാൽ ഈ പിആർഎം മെമ്മറിയിലേക്കുള്ള ഡിഎംഎ ആക്സസ് അപ്രാപ്യമാണ് ഇതിനർത്ഥം പിആർഎം മേഖലയെ ഒഎസ് non existent മെമ്മറിയായി തിരിച്ചറിയുന്നു എന്നതാണ് ഇതിനർത്ഥം പ്രോസസറിന്റെ മുഴുവൻ റാമിലും ഒരു hole ഉണ്ട് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ പിആർഎമ്മിനെ മെമ്മറി മേഖലയിലെ ഒരു hole ആയി കാണുന്നു എന്നാണ് അതിനാൽ നമ്മൾ ഈ പ്രത്യേക പ്രദേശത്ത് ഒരു മെമ്മറിയോ മറ്റേതെങ്കിലും ഡാറ്റയോ സംഭരിക്കാൻ അനുവദിക്കുകയോ അതിനു ശ്രമിക്കുകയോ ചെയ്യില്ല ഇതിൽ നിന്ന് നമുക്ക് യഥാർത്ഥത്തിൽ മനസിലാവുന്നത് ഈ മെമ്മറി മേഖല പൂർണ്ണമായും ഹാർഡ്വെയറിന്റെ നിയന്ത്രണത്തിലാണ് എന്നാണ് ഹാർഡ്വെയറിന് ഈ മെമ്മറി എൻക്ലേവുകൾ സൃഷ്ടിക്കാനും വിവിധ എൻക്ലേവുകൾ കൈകാര്യം ചെയ്യാനും ഈ എൻക്ലേവുകളിലേക്ക് പ്രവേശിക്കുന്ന മെമ്മറി മാനേജുചെയ്യാനും ഈ എൻക്ലേവുകൾക്കായി റീഡ്റൈറ്റ് കൂടാതെ എക്സിക്യൂട്ട് പെർമിഷനുകൾ നേടിയെടുക്കുന്നതിനും ഉപയോഗിക്കാം ആന്തരികമായി പിആർഎമ്മിൽ അത് നിരവധി ഇപിസി അല്ലെങ്കിൽ എൻക്ലേവ് പേജ് കാഷെകളായിEPCEnclave Page Caches തിരിച്ചിരിക്കുന്നു ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ പേജ് കാഷെകളിൽ ഓരോന്നും 4 കിലോ ബൈറ്റുകളാണ് പ്രോഗ്രാമിൽ നിലവിലുള്ള വിവിധ ആപ്ലിക്കേഷനുകളുടെ എൻക്ലേവുകൾ സംഭരിക്കുന്നതിന് ഈ പേജ് കാഷെകൾ ഉപയോഗിക്കുന്നു കൂടാതെ മാനേജ്മെൻറുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഇപിസിഎം എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക പ്രദേശത്ത് സംഭരിച്ചിരിക്കുന്നു ഇപിസിഎം എന്നാൽ ഇപിസി മൈക്രോ ആർക്കിടെക്ചർ എന്നാണ് ഇവിടെ നമുക്ക് ഒന്നിലധികം പ്രോസസ്സുകൾ ഉണ്ട് ഓരോ പ്രോസസ്സിനും അതിന്റേതായ വിർച്വൽ അഡ്രസ് സ്പേസ് ഉണ്ട് ഈ വെർച്വൽ അഡ്രസ് സ്പേസിനുള്ളിൽ ഓരോ പ്രോസസ്സിനും അതിന്റേതായ എൻക്ലേവ് ഉണ്ടായിരിക്കാം ഓരോ പ്രോസസ്സിനും ഒന്നോ അതിലധികമോ എൻക്ലേവുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ എൻക്ലേവുകളില്ലാത്ത പ്രോസസും ഉണ്ടാവാം വെർച്വൽ അഡ്രസ് സ്പെയ്സിനുള്ളിൽ ഈ എൻക്ലേവ് നായി റാമിലെ പിആർഎം മേഖലയിലേക്ക് ഒരു മാപ്പിംഗ് ഉണ്ട് വിർച്വൽ മെമ്മറി ഫിസിക്കൽ മെമ്മറി address ലേക്ക് പരിവർത്തനം ചെയ്യുന്ന മെമ്മറി മാനേജുമെന്റ് യൂണിറ്റ് നമ്മുടെ പക്കലുണ്ട് റാമിൽ നിലവിലുള്ള പിആർഎമ്മിലെ ഫിസിക്കൽ പേജുകളിലേക്ക് ഈ എൻക്ലേവ് മാപ്പുചെയ്യുന്നുവെന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉറപ്പാക്കും അതിനാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ഒന്നിലധികം പ്രോസസ്സുകൾ ഉണ്ടായിരിക്കാം അവയിൽ ഓരോന്നിനും അവരുടേതായ എൻക്ലേവുകളുണ്ട് എന്നാൽ ഈ പ്രോസസ്സുകൾ എല്ലാം റാമിലെ ഒരേ പിആർഎം മേഖലയിലേക്കു മാപ്പുചെയ്യും എൻക്ലേവ് പേജ് കാഷെ മാപ്പിന്റെ ചുരുക്കപ്പേരായ ഇപിസിഎം നോക്കാം ഈ ഇപിസിഎമ്മിനെ വിവിധ ഉപമേഖലകളായി തിരിച്ചിരിക്കുന്നു കൂടാതെ ഓരോ ഇപിസിക്കും ഒരു എൻട്രി ഉണ്ട് ഉദാഹരണത്തിന് 4 കിലോ ബൈറ്റുകൾ വീതം 1024 ഇപിസി region ഉണ്ടെങ്കിൽ ഇപിസിഎമ്മിൽ 1024 region ഉണ്ടാകും ഒരു region അനുബന്ധ ഇപിസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആക്സസ് നിയന്ത്രണത്തിനായി ഹാർഡ്വെയർ ഈ ഇപിസിഎം ഉപയോഗിക്കുന്നു അത് അനുബന്ധ ഇപിസിയുമായി ബന്ധപ്പെട്ട വിവിധ വിവരങ്ങൾ സംഭരിക്കുന്നു ഉദാഹരണത്തിന് ഈ പ്രത്യേക ഇപിസിക്ക് അനുബന്ധമായ ഇപിസിഎം എൻട്രിപ്രത്യേക ഇപിസിയുടെ സാധുത ഈ ഇപിസിക്കായുള്ള റീഡ് റൈറ്റ് എക്സിക്യൂട്ട് അനുമതികൾ എന്നിവ പോലുള്ള ഘടകങ്ങൾ സൂക്ഷിക്കുന്നു ഉദാഹരണത്തിന് ഇവിടെ കോഡ് നിലവിലുണ്ടെങ്കിൽ ആ പ്രത്യേക കോഡ് എക്സിക്യൂട്ടബിൾ ആയിരിക്കും എന്നാൽ writable അല്ല പേജ് ഏതു തരത്തിൽ ഉള്ളതാണെന്നും പ്രത്യേക ഇപിസിക്കായുള്ള വെർച്വൽ address range ഉം ഇത് സംഭരിക്കുന്നു ചില കാര്യത്തിൽ ഈ ഇപിസിഎം സാധാരണയായി സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കുന്ന പേജ് table ളുമായി സമാനമാണ് ഒരേയൊരു വ്യത്യാസം പേജ് table ൽ ഭൂരിഭാഗവും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാൽ എസ്ജിഎക്സിനൊപ്പം ഇപിസിഎം ഉള്ളടക്കങ്ങൾ പൂർണ്ണമായും ഹാർഡ്വെയർ നിയന്ത്രിക്കുന്നു നിങ്ങൾ വീണ്ടും ഈ സ്ലൈഡിൽ നോക്കിയാൽ എൻക്ലേവിൻറെ വിർച്വൽ അഡ്രസ് സ്പെയ്സിൽ നിന്ന് പിആർഎമ്മിലെ അനുബന്ധ ഫിസിക്കൽ അഡ്രസ് സ്പെയ്സിലേക്ക് ഒരു പരിവർത്തനം ഉണ്ടെന്ന് കാണാം ഇതിൽ രണ്ട് വിവർത്തനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പിന്നീട് നമ്മൾ കാണും ഒരെണ്ണം സ്റ്റാൻഡേർഡ് മെമ്മറി മാനേജുമെന്റ് യൂണിറ്റാണ് ചെയ്യുന്നത് പേജ് ഡയറക്ടറിയും പേജ് table കളും ഓപ്പറേറ്റിംഗ് സിസ്റ്റം പരിപാലിക്കുന്നു അതിനാൽ ഈ region വെർച്വൽ address നെ അനുബന്ധ ഫിസിക്കൽ address ലേക്ക് മാറ്റും പിആർഎമ്മിൽ അടങ്ങിയിരിക്കുന്ന ഇപിസിഎം ഉപയോഗിച്ച് ഹാർഡ്വെയർ രണ്ടാമത്തെ സാധുത പരിശോധന നടത്തുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിശ്വസനീയമല്ലാത്തപ്പോൾ പോലും ഹാർഡ്വെയർ ചെയ്യുന്ന അധിക പരിശോധനകൾ കോഡും ഡാറ്റയും എൻക്ലേവ് സുരക്ഷിതമായി സൂക്ഷിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു

പിആർഎമ്മിൽ നിലവിലുള്ള മറ്റൊരു അനുബന്ധ ഡാറ്റാ സ്ട്രക്ചർ എസ്ഇസിഎസ് അല്ലെങ്കിൽ എസ്ജിഎക്സ് എൻക്ലേവ് കൺട്രോൾ സ്റ്റോർSECSSGX Enclave Control Store എന്ന് വിളിക്കുന്നു ഓരോ എൻക്ലേവിനും ഒരു എസ്ഇസിഎസ് ഉണ്ട് അത് ഓരോന്നും 4 കിലോ ബൈറ്റുകളാണ് ഉദാഹരണത്തിന് സിസ്റ്റത്തിൽ 10 പ്രോസസ്സുകൾ ഉണ്ടെങ്കിൽ ഓരോ പ്രോസസ്സിനും ഓരോ എൻക്ലേവ് ഉണ്ടായിരിക്കും അതുപോലെ പിആർഎമ്മിൽ 10 എസ്ഇസിഎസ് സ്ട്രക്ചർ ഉം ഉണ്ടാകും ഈ SECS സ്ട്രക്ചർ ൽ ആ പ്രത്യേക എൻക്ലേവിനെക്കുറിച്ചുള്ള global മെറ്റാ ഡാറ്റ അടങ്ങിയിരിക്കുന്നു എൻക്ലേവിലുള്ള കോഡിന്റെയും ഡാറ്റയുടെയും സമഗ്രത ഉറപ്പുവരുത്താൻ ഇത് ഉപയോഗിക്കുന്നു കൂടാതെ വിവിധ എൻക്ലേവ് region ലേക്ക് വിവരങ്ങൾ മാപ്പുചെയ്യാനും ഇത് ഉപയോഗിക്കുന്നു എആർഎം ട്രസ്റ്റ്സോണുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എസ്ജിഎക്സ് മെക്കാനിസത്തിന്റെ സവിശേഷതകളിലൊന്ന് ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ എസ്ജിഎക്സ് എൻക്രിപ്റ്റ് ചെയ്ത മെമ്മറിയെ പിന്തുണയ്ക്കുന്നു എന്നതാണ് ഒന്നിലധികം കോഡുകളും മറ്റും ഉള്ള പ്രോസസറായി നമ്മൾ ഇതിനെ കണക്കാക്കുകയും ഇത് ഒരു ഹാർഡ്വെയർ enabled പ്രോസസ്സറാണെന്ന് അനുമാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ സംഭവിക്കുന്നത് പ്രോസസ്സറിൽ നിന്ന് യഥാർത്ഥത്തിൽ അയച്ചതോ പ്രോസസ്സറിൽ സ്വീകരിച്ചതോ ആയ ഏതെങ്കിലും ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്ത അവസ്ഥയിലായിരിക്കും ഈ എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റ പ്രോസസറിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്ലെയിൻ ടെക്സ്റ്റ് ഡാറ്റ ലഭിക്കുന്നതിന് വളരെ വേഗതയുള്ള ഡീക്രിപ്ഷൻ എഞ്ചിൻ അത് ഡീക്രിപ്ഷൻ ചെയ്യും അതിനാൽ ഇതിനർത്ഥം പ്രോസസ്സറിൽ നിന്ന് പുറത്തുപോകുന്ന ഏത് ഡാറ്റയും എൻക്രിപ്റ്റ് ചെയ്യപ്പെടുമ്പോൾ എൻക്ലേവിലുള്ള പ്രോസസറിലേക്ക് വരുന്ന ഏത് ഡാറ്റയും ഡീക്രിപ്റ്റ് ചെയ്യും ഡി റാം മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ പ്രോസസ്സറിലെ വിവിധ ബസുകളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഒരു ആക്രമണകാരിക്ക് എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റ മാത്രമേ കാണാൻ കഴിയൂ ഇത് എൻക്ലേവ് region ന്റെ രഹസ്യസ്വഭാവവും ഡാറ്റയുടെ സമഗ്രതയും ഉറപ്പാക്കുന്നു ഉദാഹരണത്തിന് ഒരു ആക്രമണകാരി ഈ ബസിൽ ഡാറ്റ പരിഷ്ക്കരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് തിരിച്ചറിയാൻ പ്രോസസ്സറിൽ ഒരു പരിശോധന നടത്തി ആവശ്യമെങ്കിൽ exception ആകുകയും ചെയ്യും അതിനാൽ എൻക്ലേവ് region പ്രധാനമായും പ്രോസസ്സിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നുവെന്ന് നമ്മൾ ചർച്ച ചെയ്ത സ്ലൈഡ് ഓർമ്മിക്കുക എന്നിരുന്നാലും എൻക്ലേവ് region ൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഈ പ്രത്യേക ഡാറ്റയ്ക്ക് function ൻറെ user space ൽ എന്തും ആക്സസ് ചെയ്യാൻ കഴിയും ഇത് നമുക്ക് നാല് വ്യത്യസ്ത ബദലുകൾ നൽകുന്നു ആദ്യത്തേത് നിങ്ങൾ എൻക്ലേവിന് പുറത്തുള്ള കോഡിലായിരിക്കുമ്പോഴാണ് നിങ്ങൾ എൻക്ലേവിന് പുറത്ത് സാധാരണ മോഡിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എൻക്ലേവിന് പുറത്തുള്ള ഡാറ്റ ആക്സസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഇത് അനുവദിക്കണം രണ്ടാമത്തേത് നിങ്ങൾ എൻക്ലേവിന് പുറത്ത് കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് പക്ഷേ എൻക്ലേവിനുള്ളിൽ ഉള്ള കോഡ് ആക്സസ് ചെയ്യാനോ എക്സിക്യൂട്ട് ചെയ്യാനോ ശ്രമിക്കുമ്പോൾ ഇത് അനുവദിക്കരുത് നിങ്ങൾ എൻക്ലേവ് മോഡിൽ പ്രവർത്തിക്കുമ്പോൾ എൻക്ലേവിനുള്ളിലോ പുറത്തോ ഉള്ള ഡാറ്റ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇവ രണ്ടും പ്രോസസ്സർ അനുവദിക്കണം ഇതാണ് മറ്റ് രണ്ട് കേസുകൾ മെമ്മറി മാനേജുമെന്റ് യൂണിറ്റുകളും സിസ്റ്റത്തിലുള്ള എസ് ജി എക്സ് യൂണിറ്റുകളും ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് നോക്കാം ഒരു എസ്ജിഎക്സ് എൻക്ലേവ് സിസ്റ്റത്തിൽ മെമ്മറി ആക്സസ് എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കുന്ന ഈ ഫ്ലോ ചാർട്ട് നോക്കാം ഇതിന്റെ ഒരു ഭാഗം ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും നിലവിലുള്ള പരമ്പരാഗത പേജ് table ഉം പേജ് ഡയറക്ടറികളുമാണ് ബാക്കിയുള്ള ഭാഗം ഹാർഡ്വെയർ പ്രത്യേകിച്ചും ഹാർഡ്വെയറിന്റെ എസ്ജിഎക്സ് വശങ്ങളാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് എൻക്ലേവിന് പുറത്ത് കോഡ് ഉള്ള കേസ് നമുക്ക് പരിഗണിക്കാം മാത്രമല്ല ഇത് എൻക്ലേവിന് പുറത്തുള്ള ഡാറ്റയിലേക്ക് ഒരു മെമ്മറി ആക്സസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത് പരമ്പരാഗത പേജ് table കളും പേജ് മെക്കാനിസങ്ങളും മാത്രമേ അനുവദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യൂ എന്ന് ഫ്ലോചാർട്ട് പിന്തുടർന്നാൽ നമുക്ക് മനസിലാവും നമ്മൾക്കു ഒരു മെമ്മറി ആക്സസ് ഉണ്ട് അത് എൻക്ലേവ് ആക്സസ് പൂജ്യമായി set ആക്കിയിരിക്കുന്നു ഇത് ഒരു എൻക്ലേവ് മോഡാണോ എന്ന് നമ്മൾ പരിശോധിക്കുന്നു ഈ പ്രത്യേക സാഹചര്യത്തിൽ അത് No ആണ് അതിനാൽ നമ്മൾ ഈ ഘട്ടങ്ങൾ ഒഴിവാക്കി ഈ സ്ഥലത്തേക്ക് പോകുന്നു തുടർന്ന് നമ്മൾ പേജ് ഡയറക്ടറികളും പേജ് table കളും ഉപയോഗിച്ചു ഒരു പരമ്പരാഗത പേജ് walk നടത്തുന്നു അതിനാൽ ആ ഡാറ്റയുടെ വെർച്വൽ address അനുബന്ധ ഫിസിക്കൽ address ലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും ഇപ്പോൾ ഒരു എൻക്ലേവ് ആക്സസ് ആണ് അടുത്ത ഘട്ടം ഡാറ്റ എൻക്ലേവിന് പുറത്തായതിനാൽ ഇത് No ആണ് ഡാറ്റ എൻക്ലേവിൽ ഇല്ലാത്തതിനാൽ ഈ കേസിൽ physical address ഇപിസിയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു ഡാറ്റ എൻക്ലേവിന് പുറത്താണ് അതിനാൽ ഈ കേസും No ആണ് ഒടുവിൽ നമ്മൾ ആക്സസ് അനുവദിക്കുന്നു എൻക്ലേവിനുള്ളിൽ നിലവിലുള്ള ഡാറ്റ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന എൻക്ലേവിന് പുറത്ത് കോഡ് ഉള്ള മറ്റൊരു സാഹചര്യം നോക്കാം അതിനാൽ ഫ്ലോ ചാർട്ട് വീണ്ടും പിന്തുടരും എൻക്ലേവ് ആക്സസ് പൂജ്യത്തിലേക്ക് സജ്ജമാക്കും അത് എൻക്ലേവ് മോഡിലായതിനാൽ ഇത് No ആണ് നമ്മൾ ഇവിടെ പോയി പരമ്പരാഗത പേജ് ടേബിൾ walk നടത്തി അനുബന്ധ ഫിസിക്കൽ address നേടുകയും അത് ഒരു എൻക്ലേവ് ആക്സസ് ആണോയെന്ന് പരിശോധിക്കുകയും ചെയ്യും എൻക്ലേവ് ആക്സസ് ഇപ്പോഴും പൂജ്യമായി സജ്ജമാക്കിയിരിക്കുന്നതിനാൽ ഇത് No ആണ് അപ്പോൾ physical address ഇപിസിയിലാണോയെന്ന് പരിശോധിക്കുന്നു ഈ സാഹചര്യത്തിൽ അത് yes ആണ് തുടർന്ന് നമ്മൾ ചെയ്യുന്നത് physical address നെ non existent memory address ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക എന്നതാണ് അടിസ്ഥാനപരമായി ചില garbage നിറച്ച് നമ്മൾ മെമ്മറി അക്സസ്സ് അനുവദിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അത്തരമൊരു മെമ്മറി ആക്സസ് പൂർത്തിയാകുമെന്നതാണ് പക്ഷേ പ്രോഗ്രാം കാണുന്നത് എൻക്ലേവിനുള്ളിലെ മെമ്മറി ലൊക്കേഷനുമായി ബന്ധപ്പെട്ട യഥാർത്ഥ value ആയിരിക്കില്ല പകരം ചില garbage ആയിരിക്കും എൻക്ലേവ് മോഡിൽ പ്രവർത്തിച്ചു എൻക്ലേവിന് പുറത്തുള്ള ഡാറ്റ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന മൂന്നാമത്തെ വശവും നമ്മൾ പരിശോധിക്കും നമ്മൾ ഇത് വീണ്ടും പിന്തുടരും പതിവുപോലെ എൻക്ലേവ് ആക്സസ് പൂജ്യത്തിലേക്ക് set ആക്കി ഞങ്ങൾ എൻക്ലേവ് മോഡിലാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ ഇത് yes ആണ് എൻക്ലേവ് അഡ്രസ്സ് സ്പേസിലെ അക്സസ്സ് no ആണ് നമ്മൾ ഇവിടെ വന്ന് പരമ്പരാഗത പേജ് table walk നടത്തുകയും അനുബന്ധ physical address നേടുകയും ചെയ്യുന്നു എൻക്ലേവ് ആക്സസ് 1 ന് തുല്യമാണോ എന്ന് പരിശോധിക്കുന്നു അത് no ആണ് കാരണം എൻക്ലേവ് ആക്സസ് ഇപ്പോഴും പൂജ്യമാണ് അതിനാൽ ഞങ്ങൾ ഇവിടെയെത്തുകയും ഇപിസിയിൽ physical address നായി പരിശോധന നടത്തുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ഇത് no ആണ് കാരണം നമ്മൾ എൻക്ലേവ് മോഡിലാണെങ്കിലും എൻക്ലേവിന് പുറത്തുള്ള ഡാറ്റ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നു അതിനാൽ ആക്സസ് അനുവദനീയമാണ് എൻക്ലേവിൽ ഒരു കോഡ് നിലവിലുണ്ടെന്നിരിക്കെ നിങ്ങൾ എൻക്ലേവ് മോഡിൽ പ്രവർത്തിക്കുകയും എൻക്ലേവിൽ ഡാറ്റ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അവസാനത്തെ കേസും പരിശോധിക്കാം പതിവുപോലെ നമ്മൾ എൻക്ലേവ് ആക്സസ് പൂജ്യത്തിലേക്ക് സജ്ജമാക്കുന്നു ഇവിടെ എൻക്ലേവ് മോഡ് yes ആണ് അതിനാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ വന്ന് എൻക്ലേവ് address ലേക്ക് പ്രവേശിക്കുന്നു ഇത് yes ആണ് അതിനാൽ എൻക്ലേവ് ആക്സസ് 1 ലേക്ക് സജ്ജമാക്കുക നമ്മൾ ഇവിടെ പോയി പരമ്പരാഗത പേജ് table walk നിർവ്വഹിക്കുന്നു അത് വിർച്വൽ address അനുബന്ധ ഫിസിക്കൽ address ലേക്ക് പരിവർത്തനം ചെയ്യും 1 ന് തുല്യമായ എൻക്ലേവ് ആക്സസ് നോക്കുന്നു ഇവിടെ എൻക്ലേവ് അക്സസ്സ് തീർച്ചയായും 1 ആണ് ആയതിനാൽ നമ്മൾ ഫ്ലോയുടെ ഈ ഭാഗത്തേക്ക് വന്ന് ഫിസിക്കൽ വിലാസം ഇപിസിയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു ഇതു yes ആണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇപിസിഎം പരിശോധിക്കുന്നു വിവിധ അനുമതികൾ പരിശോധിക്കുകയും അക്സസ്സ് ചെയ്യാൻ പോകുന്ന ഈ പ്രത്യേക ഇപിസിക്ക് ആ പ്രത്യേക ആക്സസ് അനുവദിക്കുന്നതിനുള്ള ശരിയായ അനുമതികൾ ഉണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു ഈ അനുമതികൾ വിജയകരമാണെങ്കിൽ ആക്സസ് അനുവദിക്കുക അല്ലെങ്കിൽ ഒരു സിഗ്നൽ fault സൃഷ്ടിക്കും ഈ വീഡിയോയിൽ ഇന്റൽ എസ്ജിഎക്സിനെക്കുറിച്ച് ഒരു ലഘു ആമുഖം ഉണ്ടായിരുന്നു അടുത്ത വീഡിയോയിൽ ഒരു സോഫ്റ്റ്വെയർ വീക്ഷണകോണിൽ നിന്ന് എങ്ങനെ നീങ്ങുന്നുവെന്നും ആപ്ലിക്കേഷനുകൾ എങ്ങനെ എഴുതുന്നുവെന്നും എസ്ജിഎക്സ് മോഡ് എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും എൻക്ലേവിന് പുറത്തുള്ള ഒരു സാധാരണ മോഡിൽ നിന്ന് എൻക്ലേവിലേക്ക് ഡാറ്റ എങ്ങനെ കൈമാറാമെന്നും മറ്റും കാണും